ഈ കോഴ്സിൽ നിങ്ങൾ ഇൻഡസ്ട്രി 4 0 സാങ്കേതികവിദ്യയ്ക്ക് ഇൻഡസ്ട്രികളുടെ നിർദ്ദിഷ്ട ആവശ്യകതകൾ ഉണ്ടായിരിക്കും ആ വ്യാവസായിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി നമ്മൾ ക്രമീകരിക്കേണ്ടതുണ്ട് ഇൻഡസ്ട്രിയൽ ഐഒടി ചിത്രത്തിലേക്ക് വരുന്നത് അവിടെയാണ് പ്രത്യേകിച്ചും ഇൻഡസ്ട്രികളിൽ ഇത് വളരെ ജനപ്രിയമാണ് ഇക്കാലത്ത് മിക്ക വ്യവസായങ്ങളും ആഗോളമായി മാറുകയാണ് ഇൻഡസ്ട്രി 4 0 എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം കൃത്യമായി പറഞ്ഞാൽ ഐഒടി പോലുള്ള പരമ്പരാഗത കണക്കുകൂട്ടൽ ഉപകരണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു കംപ്യൂട്ടേഷണൽ പരമ്പരാഗത കണക്കുകൂട്ടൽ ഉപകരണങ്ങൾ നിലവിലുള്ള വ്യത്യസ്ത ഭൌതിക വസ്തുക്കൾ ടൂത്ത് ബ്രഷ് പ്രൊജക്ഷൻ സിസ്റ്റം ഹീറ്റിംഗ് സിസ്റ്റം ഈ റഫ്രിജറേഷൻ സിസ്റ്റം എന്നിവ നേരത്തെ സൂചിപ്പിച്ചു ഇവയെല്ലാം പരസ്പരം ബന്ധിപ്പിക്കുകയും പരസ്പരം ആശയവിനിമയം നടത്തുകയും ചെയ്യും ഈ ഇന്റർ നെറ്റ്വർക്ക് വലിയ അളവിലുള്ള ഡാറ്റ അയയ്ക്കാൻ പോകുന്നു അത് ഡാറ്റ വീണ്ടെടുക്കുകയും പ്രോസസ്സ് ചെയ്യേണ്ടതും ഉണ്ട് അതിന്റെ വ്യത്യസ്ത ഉപയോഗങ്ങളുണ്ട് ഉദാഹരണത്തിന് സ്മാർട്ട് ഹോമുകൾ തുടങ്ങിയ സ്മാർട്ട് സിറ്റികളുടെ വ്യത്യസ്ത ഘടകങ്ങളുണ്ട് നഗരങ്ങളെയും വീടുകളെയും സ്മാർട്ട് ആക്കുന്നതിനുള്ള ആപ്ലിക്കേഷനുകൾ ഐഒടി കണ്ടെത്തുന്നു വ്യാവസായിക പശ്ചാത്തലത്തിൽ വ്യാവസായിക പ്രക്രിയകൾ കൂടുതൽ കാര്യക്ഷമവും സ്വയംഭരണാധികാരവുമാക്കുന്നതിന് ഇവയെല്ലാം വിപുലീകരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു നമ്മൾ ഇവ ഓരോന്നും പരിശോധിക്കും ഐഒടി അല്ലെങ്കിൽ ഐഐഒടിയുടെ കേന്ദ്രബിന്ദുവാണ് സെൻസറുകളും ആക്യുവേറ്ററുകളും സാങ്കേതികവിദ്യകളും ഉണ്ട് എന്നാൽ ഐഒടി ഐഐഒടി എന്നിവയുടെ താക്കോലാണ് സെൻസിംഗും ആക്ചുവേഷനും എന്താണ് ഈ സെൻസർ എന്താണ് ഈ ആക്യുവേറ്റർ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം സെൻസറുകളെയും ആക്യുവേറ്ററുകളെയും ട്രാൻസ്ഡ്യൂസറുകളായി ഒരു ട്രാൻസ്ഡ്യൂസർ ആണ് ട്രാൻസ്ഡ്യൂസറും സെൻസറും കുറച്ച് ഇൻപുട്ട് സിഗ്നൽ എടുത്ത് ഒരു നിശ്ചിത ഔട്ട്പുട്ട് ഉത്പാദിപ്പിക്കുന്നു ചില ഔട്ട്പുട്ട് അയയ്ക്കുക അത് കൂടുതൽ പ്രോസസ് ചെയ്യപ്പെടും പ്രോസസ് ചെയ്ത ഡാറ്റയെ അടിസ്ഥാനമാക്കി ട്രാൻസ്ഡ്യൂസർ പ്രവർത്തിപ്പിക്കും അതിനാൽ ഊർജ്ജ പരിവർത്തനം സംഭവിക്കുന്നു ആക്യുവേറ്റർ ചില ഔട്ട്പുട്ട് ഉത്പാദിപ്പിക്കുന്നു ട്രാൻസ്ഡ്യൂസറുകൾ പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ് ട്രാൻസ്ഡ്യൂസർ ഒരു സിഗ്നലിനെ ഒരു ഭൌതിക രൂപത്തിൽ നിന്ന് മറ്റൊരു ഭൌതിക രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നു ഈ ഭൌതിക രൂപങ്ങൾ വൈദ്യുത രൂപം മെക്കാനിക്കൽ എന്നിവ പോലെയാകാം ഒരു ട്രാൻസ്ഡ്യൂസർ ഒരു ഊർജ്ജ പരിവർത്തനമല്ലാതെ മറ്റൊന്നുമല്ല ഇത് ഊർജ്ജത്തെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിൽ ഊർജ്ജമാക്കി മാറ്റുന്നു ഉദാഹരണത്തിന് പരമ്പരാഗത മൈക്രോഫോൺ

മൈക്രോഫോണിന്റെ അടിസ്ഥാന പ്രവർത്തന ആശയമാണിത് ഒരു സ്പീക്കർ അതുപോലെ തന്നെ വൈദ്യുത രൂപത്തിൽ നിന്ന് ശബ്ദത്തിലേക്കുള്ള ഊർജ്ജത്തിന്റെ ഒരു പരിവർത്തനമാണ് ഒരു സ്പീക്കർ ട്രാൻസ്ഡ്യൂസറിന്റെ മറ്റൊരു ഉദാഹരണമാണ് അതുപോലെ നമുക്ക് വൈദ്യുതകാന്തിക ഊർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ആന്റിനകളും പോലെ ട്രാൻസ്ഡ്യൂസറിന് മറ്റ് നിരവധി ഉദാഹരണങ്ങളുണ്ട് ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ സെൻസർ ചില ഭൌതിക അളവുകൾ മനസ്സിലാക്കുന്നു അത് പരിസ്ഥിതിയുടെ സ്വഭാവസവിശേഷതയിൽ മാറുന്നു അത് പ്രവർത്തിക്കുന്നു ഉദാഹരണത്തിന് ഒരു താപനില സെൻസർ സെൻസർ വിന്യസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പരിസ്ഥിതിയുടെ താപനിലയിലെ മാറ്റങ്ങൾ മനസ്സിലാക്കും സെൻസറിന്റെ ഔട്ട്പുട്ട് ഒരു സിഗ്നലാണ് അത് മനുഷ്യർക്ക് വായിക്കാവുന്ന ചില രൂപങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നു അത് വ്യത്യസ്ത രൂപങ്ങളാകാം ഉദാഹരണത്തിന് നിലവിലെ സ്വഭാവസവിശേഷതകളിലെ മാറ്റങ്ങൾ വോൾട്ടേജ് സവിശേഷതകളിലെ മാറ്റങ്ങൾ പ്രതിരോധത്തിലെ മാറ്റങ്ങൾ കപ്പാസിറ്റൻസിലെ മാറ്റങ്ങൾ പ്രതിരോധശേഷിയിലെ മാറ്റങ്ങൾ എന്നിവ മനുഷ്യർക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഒരു സെൻസർ പരിസ്ഥിതിയിലെ ഈ വാതകങ്ങളുടെ അളവിലുള്ള മാറ്റങ്ങൾ മനസ്സിലാക്കുന്നതിനായി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് പ്രത്യേകിച്ചും പരിസ്ഥിതിയുടെ പശ്ചാത്തലത്തിൽ വ്യത്യസ്ത വാതകങ്ങളുടെ സാന്നിധ്യം നിരീക്ഷിക്കാൻ ഗ്യാസ് സെൻസറുകൾ ആകസ്മികമായി ഉപയോഗപ്രദമാണ് ഖനന പരിതസ്ഥിതികൾക്ക് അവ വളരെ ഉപയോഗപ്രദമാണ് കൽക്കരി ഖനികളിൽ മീഥേൻ വാതകത്തിന്റെ വർദ്ധനവ് കണ്ടെത്തുന്നതിന് മീഥെയ്ൻ സെൻസറുകൾ ഖനികളിൽ ഉപയോഗിക്കുന്നു നിങ്ങൾക്കറിയാവുന്നതുപോലെ ഈ വാതകങ്ങൾ വളരെ അപകടകരമാണ് ഭൌതിക അളവുകോലുകളും പ്രതികരണവും പ്രതിരോധശേഷിയിലെ ചില മാറ്റങ്ങൾ കപ്പാസിറ്റീവ് ശേഷിയിലെ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഔട്ട്പുട്ടിന്റെ രൂപത്തിൽ നിലവിലെ വോൾട്ടേജ് സ്വഭാവസവിശേഷതകളുടെ മാറ്റങ്ങൾ എന്നിവയാണ് ചില സെൻസറുകളുടെ ചില ചിത്രങ്ങൾ ഇതാ എന്റെ ലാബിൽ എനിക്ക് ഉള്ള സെൻസറുകൾ ഇവയാണ് കൂടാതെ മറ്റ് നിരവധി സെൻസറുകളും ഉണ്ട് വ്യത്യസ്ത സെൻസറുകൾ എങ്ങനെ കാണപ്പെടുന്നുവെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവ എടുത്തത് യഥാർത്ഥത്തിൽ സെൻസറുകൾ അടിസ്ഥാനപരമായി അവ വ്യത്യസ്ത ആകൃതിയിലും വലുപ്പത്തിലും വരുന്നു ഇവയിൽ ചിലത് മാക്രോ ലഭ്യമാണ് ഇത് ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി സെൻസർ ആണ് എൽപിജി ഗ്യാസ് മീഥെയ്ൻ കാർബൺ മോണോക്സൈഡ് ഇതൊരു പിഐആർ സെൻസറാണ് ഇത് ഒരു അൾട്രാസോണിക് സെൻസറാണ് ഇത് ഒരു പ്രത്യേക വസ്തു എത്ര ദൂരെയാണെന്ന് കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കുന്നു ഈ സെൻസറിന്റെ സഹായത്തോടെ തടസ്സങ്ങൾ കണ്ടെത്താനാകും അൾട്രാസൌണ്ട് ഈ രണ്ട് സിലിണ്ടറുകളിലൊന്നിൽ നിന്ന് അയയ്ക്കുന്ന ശബ്ദ തരംഗം ആണ് ഒരു സിലിണ്ടർ ശബ്ദ സിഗ്നൽ അയയ്ക്കുമ്പോൾ അത് ആ പ്രതിബന്ധം പ്രതിഫലിപ്പിക്കുകയും മറ്റൊന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക തടസ്സം എത്ര ദൂരെയാണ് അല്ലെങ്കിൽ അതിന്റെ പരിധിയിൽ ഒരു തടസ്സം ഉണ്ടോ എന്ന് അറിയാൻ കഴിയും വ്യത്യസ്ത തരത്തിലുള്ള മറ്റൊരു സെൻസർ വിവിധ തരം നിറങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയുന്ന കളർ സെൻസർ ഞാൻ നിങ്ങളെ കാണിക്കട്ടെ ഇതൊരു ആക്സിലറോമീറ്റർ സെൻസറാണ് നമുക്ക് കാർബൺ മോണോക്സൈഡ് വാതകം കണ്ടെത്തുന്ന ഗ്യാസ് സെൻസർ ഉണ്ട് പിന്നെ റെയിൻ ഗേജ് എന്ന മറ്റൊരു സെൻസറും കൊണ്ടുവന്നിട്ടുണ്ട് അവ മഴയെ തിരിച്ചറിയുന്നു

സെൻസറുകളുടെ സവിശേഷതകളെ രണ്ട് തരങ്ങളായി തരംതിരിക്കാം സ്റ്റാറ്റിക് സവിശേഷതകൾ ചലനാത്മക സവിശേഷതകൾ വ്യത്യസ്ത സെൻസറുകൾക്ക് വ്യത്യസ്ത പ്രവർത്തന സംവിധാനങ്ങളുണ്ട് പൊതുവേ ഒരു സെൻസർ അതിന്റെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ മിക്ക കേസുകളിലും സ്ഥിരമായ അവസ്ഥയിലേക്ക് വരാൻ കുറച്ച് സമയമെടുക്കും സ്ഥിരമായ അവസ്ഥയിൽ ഒരു പ്രത്യേക സെൻസറിന്റെ സവിശേഷതകളാണ് സ്റ്റാറ്റിക് സവിശേഷതകൾ സെൻസർ അതിന്റെ സ്ഥിരത കൈവരിച്ചുകഴിഞ്ഞാൽ ഇൻപുട്ടിലെ മാറ്റത്തോടുള്ള പ്രതികരണമായി ഒരു സെൻസറിന്റെ ഔട്ട്പുട്ട് ഗണ്യമായി മാറുന്നില്ല സെൻസർ സ്ഥിരത കൈവരിക്കുന്നതിന് മുമ്പ് ഒരു ഇൻപുട്ടിനോടുള്ള സിസ്റ്റത്തിന്റെ ക്ഷണിക പ്രതികരണത്തിന്റെ സവിശേഷതകളെക്കുറിച്ചാണ് ചലനാത്മക സവിശേഷതകൾ നൽകുന്നത് സ്ഥായിയായ സ്വഭാവസവിശേഷതകൾ കൃത്യത പോലുള്ള സ്വഭാവങ്ങളാകാം ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു മികച്ച സിസ്റ്റവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് ഔട്ട്പുട്ടിന്റെ കൃത്യതയെക്കുറിച്ചാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സെൻസർ എത്ര കൃത്യമായി അളക്കുന്നു ശ്രേണി എന്നാൽ പ്രവർത്തന മൂല്യം ഏറ്റവും കുറഞ്ഞ മൂല്യത്തിൽ നിന്ന് ഉയർന്ന മൂല്യത്തിലേക്ക് നൽകുന്നതാണ് ഒരു പ്രത്യേക സെൻസറിന്റെ പ്രവർത്തന പരിധി ഒരു പ്രത്യേക താപനില സെൻസറിന്റെ ഏറ്റവും കുറഞ്ഞ താപനില മുതൽ ഉയർന്ന താപനില വരെ ആ പ്രത്യേക സെൻസറിന്റെ ശ്രേണിയാണ് സെൻസിംഗ് ചെയ്യാൻ കഴിയുന്ന ഇൻപുട്ടിന്റെ ഏറ്റവും ചെറിയ മാറ്റമാണ് റെസല്യൂഷൻ അതുപോലെ നിങ്ങൾക്ക് ഒരു താപനില സെൻസർ പോലെ ഒരു സെൻസറിന്റെ റെസല്യൂഷൻ ഉണ്ട് ഒരു പ്രത്യേക താപനില സെൻസറിന് തിരിച്ചറിയാനോ കഴിയുന്ന താപനിലയിലെ ഏറ്റവും ചെറിയ മാറ്റം അടിസ്ഥാനപരമായി ഒരു പ്രത്യേക സെൻസറിന്റെ റെസല്യൂഷൻ ആണ് സ്റ്റാൻഡേർഡ് മൂല്യവും സെൻസർ നിർമ്മിക്കുന്ന മൂല്യവും തമ്മിലുള്ള വ്യത്യാസമാണ് പിശക് ഇൻപുട്ട് പാരാമീറ്ററിലെ വർദ്ധിച്ചുവരുന്ന മാറ്റവുമായി ബന്ധപ്പെട്ട് സിസ്റ്റത്തിന്റെ പ്രതികരണത്തിലെ വർദ്ധിച്ചുവരുന്ന മാറ്റത്തിന്റെ അനുപാതം സംവേദനക്ഷമത സൂചിപ്പിക്കുന്നു നേർരേഖയിൽ നിന്ന് ഒരു സെൻസറിന്റെ മൂല്യത്തിന്റെ വ്യതിയാനമാണ് ലീനിയാരിറ്റി ഒരേ അവസ്ഥയിൽ ദീർഘകാലം സൂക്ഷിച്ചാൽ സെൻസറിന്റെ മൂല്യത്തിലെ ഏറ്റക്കുറച്ചിലാണ് ഡ്രിഫ്റ്റ് ഉദാഹരണത്തിന് ഒരു പ്രത്യേക അളവ് അവസ്ഥയ്ക്കായുള്ള താപനില സെൻസറോ മറ്റേതെങ്കിലും സെൻസറോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് മതിയായ ദീർഘകാലത്തേക്ക് സൂക്ഷിക്കുകയാണെങ്കിൽ അളവുകളിലെ വ്യത്യാസം അത് കാലാകാലങ്ങളിൽ കാണിക്കും അപ്പോൾ നമുക്ക് ഒരേ അവസ്ഥയിൽ ഒരു ക്രമത്തിൽ അളവുകളിൽ നിന്ന് വ്യതിചലിക്കുന്ന ആവർത്തനക്ഷമത സ്വഭാവമുണ്ട് ഇൻപുട്ടുകൾ മാറ്റുകയാണെങ്കിൽ ഇൻപുട്ടിലെ മാറ്റങ്ങളോട് സെൻസർ എത്ര നന്നായി പ്രതികരിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് ഡൈനാമിക് സവിശേഷതകൾ ഉദാഹരണമാണ് ഔട്ട്പുട്ട് അതിന്റെ അന്തിമ മൂല്യത്തിലേക്ക് ക്രമേണ എത്തുന്നതാണ് ഫസ്റ്റ് ഓർഡർ സിസ്റ്റങ്ങൾ ഈ സംവിധാനങ്ങൾക്ക് ഊർജ്ജ സംഭരണത്തിനും പുറംതള്ളുന്നതിനും ഒരുതരം സംവിധാനം ഉണ്ടാകും ഉദാഹരണത്തിന് ഒരു കപ്പാസിറ്റർ ഈ ഊർജ്ജം സംഭരിക്കുകയും ഈ സിസ്റ്റങ്ങളിൽ ഒരു നിശ്ചിത കാലയളവിൽ പുറംതള്ളുകയും ചെയ്യും സെക്കന്റ് ഓർഡർ സിസ്റ്റങ്ങൾക്ക് സങ്കീർണമായ ഔട്ട്പുട്ട് പ്രതികരണം ക്രമേണയല്ല സങ്കീർണ്ണമായ ഔട്ട്പുട്ട് പ്രതികരണമായിരിക്കും ഈ സെൻസറുകളുടെ ഈ ഔട്ട്പുട്ട് പ്രതികരണം സ്ഥിരമായ അവസ്ഥ വരുന്നതിന് മുമ്പ് സാധാരണഗതിയിൽ ഓസിലേറ്റ് ചെയ്യും ഇത് ചില മൂല്യങ്ങൾക്കിടയിൽ ചാഞ്ചാടുന്നു ഈ രണ്ടാമത്തെ ഓർഡർ സിസ്റ്റങ്ങളുടെ ഔട്ട്പുട്ട് പ്രതികരണങ്ങൾ ഇവയാണ് സെൻസറുകളെ വ്യത്യസ്ത രീതികളിൽ തരംതിരിക്കാം അവയെ പാസ്സീവ് സെൻസർ അല്ലെങ്കിൽ ആക്റ്റീവ് സെൻസർ എന്നിങ്ങനെ തരംതിരിക്കാം ഒരു പാസ്സീവ് സെൻസറിന് ഇൻപുട്ട് സ്വതന്ത്രമായി മനസ്സിലാക്കാൻ കഴിയില്ല അതിനാൽ പാസ്സീവ് സെൻസറുകളുടെ ഉദാഹരണങ്ങൾ ആക്സിലറോമീറ്റർ മണ്ണിന്റെ ഈർപ്പം ജലനിരപ്പ് താപനില സെൻസർ എന്നിവയാണ്

ഇൻപുട്ട് സ്വതന്ത്രമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ആക്റ്റീവ് സെൻസറുകൾ സജീവ സെൻസറുകളുടെ ഉദാഹരണങ്ങളാണ് അനലോഗ് സെൻസറുകൾ അതിന്റെ പ്രതിരോധത്തിൽ തുടർച്ചയായ വ്യതിയാനം കാണിക്കുന്നത് പ്രകാശത്തിന്റെ തീവ്രതയുടെ പ്രവർത്തനമായിട്ടാണ് ഡിജിറ്റൽ സെൻസറുകളാണ് അടിസ്ഥാനപരമായി ബൈനറി സ്വഭാവമുള്ള പ്രതികരണം ഇൻപുട്ട് സവിശേഷതകളിലെ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് ഔട്ട്പുട്ടിന്റെ തുടർച്ചയായ പ്രവർത്തനം സൃഷ്ടിക്കുന്ന അനലോഗ് സെൻസറുകളുടെ ചില പരിമിതികൾ മറികടക്കുന്നതിനാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് PIR സെൻസർ ഡിജിറ്റൽ താപനില സെൻസർ എന്നിവയാണ് ഡിജിറ്റൽ സെൻസറുകളുടെ ഉദാഹരണങ്ങൾ സ്കലർ സെൻസറുകൾ എന്നിവ ഉദാഹരണങ്ങളാണ് ഈ പരാമീറ്ററുകൾ കണ്ടെത്തുന്നത് ഇൻപുട്ടിന്റെ ദിശയിലുള്ള മാറ്റം താപനിലയുടെ ദിശയിലെ മാറ്റം വാതകത്തിന്റെ ദിശയിലുള്ള മാറ്റം മുതലായവയെ ആശ്രയിക്കുന്നില്ല വ്യാപ്തി ദിശ ഓറിയന്റേഷൻ എന്നിവയെ ആശ്രയിച്ച് പ്രതികരിക്കുന്ന സെൻസറുകളാണ് വെക്റ്റർ സെൻസറുകൾ എന്നിവ ഉദാഹരണങ്ങളാണ് ഈ പ്രത്യേക ചിത്രത്തിൽ ഒരു ആക്യുവേറ്റർ രണ്ട് ഇൻപുട്ടുകൾ എടുക്കുന്നു ഒരു ഇൻപുട്ട് ഊർജ്ജമാണ് ആക്റ്റുവേറ്റർ ഒരുമിച്ച് ഒരു തരം ചലനം സൃഷ്ടിക്കുന്നു അതായത് ശക്തി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതിനാൽ ആക്റ്റുവേറ്റർ എന്നത് സിസ്റ്റത്തിന്റെ ഒരു ഭാഗമാണ് അത് ആവശ്യമായ നിയന്ത്രണ പ്രവർത്തനവും മെക്കാനിക്കൽ പ്രവർത്തനവും കൈകാര്യം ചെയ്യുന്നു മറ്റു പലതും ഉണ്ട് എന്നാൽ ഇവ ആക്റ്റിവേറ്ററുകളുടെ ഈ ചിത്രങ്ങളിൽ ചിലതാണ് ഇത് ഒരു ആക്റ്റുവേറ്ററാണ് ഒരു ഇലക്ട്രിക് റിലേ ഈ റിലേ വൈദ്യുതോർജ്ജത്തെ ഏതെങ്കിലും തരത്തിലുള്ള മെക്കാനിക്കൽ പ്രവർത്തനമാക്കി മാറ്റുന്നു അല്ലെങ്കിൽ അത് ഇലക്ട്രോ മെക്കാനിക്കൽ ആകാം ഒരു പ്രത്യേക വാൽവ് ഓണാക്കുക ഒരു വാൽവ് ഓഫാക്കുക ഒരു ഉപകരണം ഓണാക്കുക ഒരു കംപ്രസ്സർ പോലുള്ള ഒരു ഉപകരണം ഓഫാക്കുക ഒരു ഇലക്ട്രിക് സിഗ്നൽ എടുക്കുന്നതിനും ചില മെക്കാനിക്കൽ പ്രവർത്തനം നടത്തുന്നതിനും ഈ റിലേകൾ ഉപയോഗപ്രദമാണ് ഇതൊരു മോട്ടോറാണ് ഒരു ഡിസി മോട്ടോർ വ്യത്യസ്ത തരം മോട്ടോറുകൾ ഉണ്ടാകാം ഇവ ഓരോന്നും അടിസ്ഥാനപരമായി ആക്റ്റേറ്ററിന്റെ ഉദാഹരണമാണ് സ്റ്റെപ്പർ മോട്ടോർ എന്നറിയപ്പെടുന്ന മറ്റൊരു തരം മോട്ടോർ ആയ മറ്റൊരു ആക്റ്റുവേറ്റർ ഞാൻ കാണിച്ചുതരാം നിങ്ങളിൽ മിക്കവരും ഇതിനകം ശരിയായി കണ്ടിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്ന ഇതുപോലുള്ള ആക്റ്റിവേറ്ററുകളും നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം ഇവയാണ് എൽഇഡി കൾ എന്തെങ്കിലും പ്രതികരിക്കുന്നതിന് പ്രതികരണമായി ഒരു എൽഇഡി ഓണാക്കാനോ ഓഫാക്കാനോ കഴിയും ഉദാഹരണത്തിന് ഒരു വാതകം ഉണ്ട് ഒരു ആക്റ്റേറ്റർ ഒരു നിയന്ത്രണ സിഗ്നൽ ഒരു ഇൻപുട്ടായി എടുക്കുന്നു തുടർന്ന് അത് അതിന്റെ പ്രവർത്തനം നിർവ്വഹിക്കുന്നു ഒരു ഡിസി മോട്ടോറിന്റെ ചിത്രം ഇതാ ഒരു ഡിസി മോട്ടോർ എങ്ങനെ കാണപ്പെടുന്നുവെന്ന് തത്സമയം കാണിച്ചതായി ഞാൻ ഇതിനകം കാണിച്ചുതന്നു അതുപോലെ ഒരു റിലേ മറ്റൊരു ഉദാഹരണമാണ് ഇലക്ട്രിക് റിലേ ഇവ ആക്റ്റുവേറ്ററുകളുടെ വ്യത്യസ്ത ഉദാഹരണങ്ങളാണ് ഇലക്ട്രിക് മോട്ടോറുകൾ സോളിനോയ്ഡ് വാൽവുകൾ ഹാർഡ് ഡ്രൈവുകൾ സ്റ്റെപ്പർ മോട്ടോർ ചീപ്പ് ഡ്രൈവ് ഹൈഡ്രോളിക് സിലിണ്ടർ പീസോ ഇലക്ട്രിക് ആക്യുവേറ്റർ ന്യൂമാറ്റിക് ആക്യുവേറ്ററുകൾ എന്നിവ ആകാം അതിനാൽ ഈ ആക്റ്റേറ്ററുകളുടെ വലുപ്പത്തെ ആശ്രയിച്ച് ഇലക്ട്രിക് ലീനിയർ ഇലക്ട്രിക് റോട്ടറി ഫ്ലൂയിഡ് പവർ ലീനിയർ ഫ്ലൂയിഡ് പവർ റോട്ടറി ലീനിയർ ചെയിൻ ആക്യുവേറ്റർ മാനുവൽ ലീനിയർ മാനുവൽ റോട്ടറി എന്നിങ്ങനെ ആക്റ്റേറ്ററുകളെ വ്യത്യസ്ത തരങ്ങളായി തരംതിരിക്കാം ഇനി നമുക്ക് ഈ ഇലക്ട്രിക് ലീനിയർ ആക്യുവേറ്റർ നോക്കാം പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇവ അടിസ്ഥാനപരമായി വൈദ്യുത സിഗ്നൽ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത് ഈ ആക്യുവേറ്ററുകളിലെ വൈദ്യുതോർജ്ജം ഒരുതരം രേഖീയ സ്ഥാനചലനം കൈവരിക്കുന്നതിനായി രൂപാന്തരപ്പെടുന്നു ഉദാഹരണത്തിന് ഇലക്ട്രിക് ബെൽ ഡാംപറുകൾ തുറക്കുന്നതും അടയ്ക്കുന്നതും വാതിലുകൾ പൂട്ടുന്നതും മെഷീൻ ചലനങ്ങൾ തകർക്കുന്നതും എന്നിങ്ങനെ അപ്പോൾ അടുത്തത് ഇലക്ട്രിക് റോട്ടറി ആക്യുവേറ്ററാണ് വൈദ്യുത സിഗ്നലുകൾ ഉപയോഗിച്ചാണ് ഇവ പ്രവർത്തിക്കുന്നത് അവർ വൈദ്യുതോർജ്ജത്തെ ഭ്രമണ ചലനമാക്കി മാറ്റുന്നു ഇത് വൈദ്യുതോർജ്ജമാണ് ഭ്രമണ ചലനത്തിലേക്ക് അതിനാൽ നിങ്ങൾക്ക് ക്വാർട്ടർ ടേൺ വാൽവുകൾ അറിയാം മറ്റ് ഇലക്ട്രിക് മോട്ടോറുകൾ ഇലക്ട്രിക് റോട്ടർ ആക്യുവേറ്ററിന്റെ ഉദാഹരണങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് ഫ്ലൂയിഡ് പവർ ലീനിയർ ആക്യുവേറ്റർ അപ്പോൾ നിങ്ങൾക്ക് ഗ്യാസ് ദ്രാവകങ്ങൾ പോലുള്ള ദ്രാവകം ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന ദ്രാവക പവർ റോട്ടറി ആക്യുവേറ്റർ ഉണ്ട് സ്ലൈഡിൽ നിങ്ങൾ കാണുന്ന ചിത്രം പോലെ റൊട്ടേഷണൽ മോഷൻ ഈ ആക്യുവേറ്ററുകളുടെ ഔട്ട്പുട്ടായി ഉത്പാദിപ്പിക്കപ്പെടുന്ന ഉദാഹരണം പോലെ അവ ഭ്രമണ ചലനം ഉണ്ടാക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ലീനിയർ ചെയിൻ ആക്യുവേറ്റർ ഉണ്ട് പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ചങ്ങലകളുടെ സ അറ്റത്ത് രേഖീയ ചലനം ഉണ്ടാക്കുന്ന സ്പ്രോക്കറ്റുകൾ ചെയിനുകളുടെ വിഭാഗങ്ങൾ എന്നിവ പോലുള്ള മെക്കാനിക്കൽ ഉപകരണങ്ങൾ അടങ്ങിയിരിക്കുന്നു ഇവ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസിലാക്കാൻ സ്ലൈഡ് സഹായിക്കുന്നു അതിനാൽ ഇവ പ്രധാനമായും ചലന നിയന്ത്രണ ആപ്ലിക്കേഷനുകളിൽ ഉപയോഗിക്കുന്നു സ്വമേധയാ തിരിക്കുന്ന സ്ക്രൂകളുടേയോ ഗിയറുകളുടേയോ വിവർത്തനത്തിലൂടെ രേഖീയ സ്ഥാനചലനം നൽകുന്ന മാനുവൽ ലീനിയർ ആക്യുവേറ്റർ നമ്മളുടെ പക്കലുണ്ട് അതിനാൽ ചില സ്ക്രൂകളിൽ മാനുവൽ റൊട്ടേഷൻ നടത്തുന്നു തൽഫലമായി ചില ലീനിയർ സ്ഥാനചലനം സംഭവിക്കുന്നു ഗിയർ ബോക്സുകൾ കൈകൊണ്ട് പ്രവർത്തിക്കുന്ന നോബുകൾ ചക്രങ്ങൾ എന്നിവ ഉദാഹരണങ്ങളാണ് ഉപകരണങ്ങളും വർക്ക് പീസുകളും കൈകാര്യം ചെയ്യുന്നതിനാണ് ഇവ പ്രധാനമായും ഉപയോഗിക്കുന്നത് സ്വമേധയാ തിരിക്കുന്ന സ്ക്രൂകൾ ലിവറുകൾ അല്ലെങ്കിൽ ഗിയറുകൾ ഗിയറുകൾ എന്നിവയുടെ വിവർത്തനത്തിലൂടെ റോട്ടറി ഔട്ട്പുട്ട് നിങ്ങൾക്ക് ഉണ്ട് ഇവ പ്രധാനമായും വാൽവുകളുടെ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു അതിനാൽ സെൻസറുകളെയും ആക്റ്റുവേറ്ററുകളെയും കുറിച്ചുള്ള ഈ പ്രത്യേക പ്രഭാഷണത്തോടെ നമ്മൾ അവസാനിക്കുന്നു തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ സെൻസറുകളാണ് കൂടാതെ IoT IIoT അടിസ്ഥാനമാക്കിയുള്ള സിസ്റ്റങ്ങളുടെ നിർമ്മാണത്തിന് അടിസ്ഥാനപരമായി ആക്റ്റേറ്ററുകൾ പ്രധാനമാണ് കൂടാതെ നിങ്ങൾക്കറിയാമോ എല്ലായിടത്തും നിങ്ങൾ കാണും ഈ കോഴ്സിൽ നമ്മൾ സംസാരിക്കുന്നത് സെൻസറുകളുടെയും ആക്യുവേറ്ററുകളുടെയും ഉപയോഗത്തെക്കുറിച്ചാണ് കൂടാതെ ഇവയെ കുറിച്ചുള്ള ഈ പ്രാഥമിക ധാരണ സെൻസറുകളെയും ആക്റ്റുവേറ്ററുകളെയും കുറിച്ച് നിങ്ങൾക്ക് ആഴത്തിലുള്ള അറിവ് ആവശ്യമാണ് IIoT എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ധാരണ സ്ലൈഡിൽ നൽകിയിട്ടുള്ള ചില പരാമർശങ്ങളാണ് ഇവ